ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് തിരികെ സ്വാഗതം ഈ പ്രഭാഷണത്തിൽ എന്റെ ഹൃദയത്തോട് വളരെ അടുപ്പമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞങ്ങൾ കവർ ചെയ്യുന്നത് അതാണ് ബിസിനസ് എത്തിക്സ് വീണ്ടും സോർസസ് ഞാൻ ഈ വിവരങ്ങൾ എടുത്ത സ്ഥലങ്ങൾ ഗിൽമോറിന്റെയും വില്യംസിന്റെയും ഒരു പുസ്തകമുണ്ട് അവരാണ് ഈ പുസ്തകത്തിന്റെ എഡിറ്റർമാർ ക്രിസ്റ്റിയുടെയും ക്രിസ്റ്റിയുടെയും ഈ പുസ്തകത്തിലെ ഒരു ലേഖനം ഞാൻ പരാമർശിച്ചിട്ടുണ്ട് എത്തിക്സ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് ലേഖനത്തിന്റെ പേര് ക്രെയിനിന്റെയും മാറ്റന്റെയും ബിസിനസ് എത്തിക്സ് മൂന്നാം പതിപ്പ് സൌത്ത് ഏഷ്യ എഡിഷൻ എന്ന പേരിൽ ഒരു ബിസിനസ്സ് എത്തിക്സ് പുസ്തകം ഞാൻ പരാമർശിച്ചിട്ടുണ്ട് ബിസിനസ്സ് എത്തിക്സിന്റെ അടിസ്ഥാന പാഠപുസ്തകമാണിത് വിപണിയിൽ എളുപ്പത്തിൽ ലഭ്യമാണ് കൂടാതെ തീർച്ചയായും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോമസ് മെജിയ ബാൽകിൻ കാർഡി മനുഷ്യവിഭവശേഷിയുടെ അടിസ്ഥാന പുസ്തകം നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം ബിസിനസ് എത്തിക്സും നിയമവും നാം ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിവിധ പദങ്ങൾ വരുന്നു ഞങ്ങൾ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങൾ നൈതികതയെ കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങൾ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നു നൈതികതയും നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പെരുമാറ്റത്തിന്റെ ഏറ്റവും കുറഞ്ഞ സ്വീകാര്യമായ മാനദണ്ഡങ്ങളുടെ നിർവചനമാണ് നിയമം അതിനാൽ നിയമം നൈതികതയുടെ പ്രയോഗമാണ് നാം ജീവിക്കുന്ന സമൂഹത്തിൽ സ്വീകാര്യമായതും അത് പാലിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാവുന്നതുമാണ് നിയമം പെരുമാറ്റത്തിന്റെ ബാധകമായ മാനദണ്ഡങ്ങൾ ബിസിനസ്സ് എത്തിക്സ് പ്രാഥമികമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നിയമത്തിന്റെ പരിധിയിൽ വരാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ കൃത്യമായ സമവായമില്ലാത്ത വിഷയങ്ങളിലാണ് നിയമം അവസാനിക്കുന്നിടത്ത് ബിസിനസ് എത്തിക്സ് ആരംഭിക്കുന്നു നിയമത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാം വ്യക്തമാണ് ഇത് ശരിയാണ് ഇത് ശരിയല്ല ഇത് നിയമാനുസൃതമാണ് ഇത് നിയമാനുസൃതമല്ല ഞങ്ങൾ ബിസിനസ്സ് നൈതികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിയമവിരുദ്ധമായി കണക്കാക്കുന്നതോ അല്ലാത്തതോ ആയ പെരുമാറ്റങ്ങളെയാണ് ബിസിനസ് എത്തിക്സ് സൂചിപ്പിക്കുന്നത് കൂടാതെ വ്യക്തമായ നിർവചനങ്ങളൊന്നുമില്ല എന്നാൽ ഈ പെരുമാറ്റങ്ങൾ സദാചാരവിരുദ്ധമായ പെരുമാറ്റങ്ങളാണ് സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് തീർച്ചയായും അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന സ്വഭാവങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മുഴുകുന്ന സ്വഭാവങ്ങളാണിവ പക്ഷേ അവ അസുഖകരമായി കണക്കാക്കാം അവ നിയമവിരുദ്ധമായിരിക്കില്ല പക്ഷേ അവ തീർച്ചയായും നമുക്ക് അസ്വാസ്ഥ്യകരമാണ് നിങ്ങൾക്കറിയാമോ ഞങ്ങൾ ചിലപ്പോൾ പറയുന്നത് പോലെ നിങ്ങളുടെ മൂക്ക് എന്റേത് ആരംഭിക്കുന്നിടത്ത് അവസാനിക്കുന്നു അതിനർത്ഥം ദയവായി എന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യരുത് എന്റെ സ്വന്തം സ്വകാര്യ കുമിളയിൽ എനിക്ക് അവകാശമുണ്ട് ഞങ്ങൾ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു മനുഷ്യന്റെ കംഫർട്ട് സോണിനെ ശല്യപ്പെടുത്തരുതെന്ന് ഞങ്ങൾ സംസാരിക്കുന്നു വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നു പക്ഷേ കുറച്ചുപേർക്ക് മാത്രമേ അത് മനസ്സിലാകൂ എനിക്കും അത് പൂർണ്ണമായി മനസ്സിലാകുന്നില്ല പക്ഷേ ബിസിനസ്സ് നൈതികതയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ശ്രമിക്കും ധാർമ്മികത എത്തിക്സ് എത്തിക്സ് സിദ്ധാന്തം എന്നിവ നിർവചിക്കുന്ന ചില നിർവചനങ്ങൾ ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ ശരിയും തെറ്റും നിർവചിക്കുന്ന സാമൂഹിക പ്രക്രിയകളിൽ ഉൾച്ചേർത്തിരിക്കുന്ന മാനദണ്ഡങ്ങൾ മൂല്യങ്ങൾ വിശ്വാസങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ധാർമ്മികത സമൂഹം എന്താണ് ശരിയെന്ന് കരുതുന്നത് സമൂഹം എന്താണ് തെറ്റായി കണക്കാക്കുന്നത് പിന്നെ നിങ്ങൾ പറയും ഞാനാണ് സമൂഹം അതെ നിങ്ങൾ തന്നെ നാമെല്ലാവരും സമൂഹത്തിന് സംഭാവന ചെയ്യുന്നു കൂടാതെ സമൂഹം ശരിയാണെന്ന് കരുതുന്ന കാര്യങ്ങൾ മാറ്റാൻ നാമെല്ലാവരും ശ്രമിക്കുന്നു പക്ഷേ ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നു വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നു സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ശരിയോ തെറ്റോ ഉചിതമോ അനുചിതമോ ആണെന്ന് തോന്നുന്നത് ധാർമ്മികതയാണ് ധാർമ്മികതയെക്കുറിച്ചുള്ള പഠനവും ഒരു പ്രത്യേക സാഹചര്യത്തിന് ശരിയും തെറ്റും നിർണ്ണയിക്കുന്ന നിർദ്ദിഷ്ട നിയമങ്ങളും തത്വങ്ങളും വ്യക്തമാക്കുന്നതിനുള്ള യുക്തിയുടെ പ്രയോഗവുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ എത്തിക്സ് ധാർമ്മികതയുടെ ഒരു പ്രയോഗമാണ് എന്തെങ്കിലുമൊരു കാര്യം ശരിയോ തെറ്റോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികതയെ നിർവചിക്കാനുള്ള ശ്രമമാണ് എത്തിക്സ് എന്തുകൊണ്ടാണ് സമൂഹം എന്തിനാണ് വലിയൊരു വിഭാഗം ആളുകൾ എന്തെങ്കിലും ശരിയോ തെറ്റോ ആയി കണക്കാക്കുന്നത് എന്ന് ഞങ്ങൾ പഠിക്കുന്നു അതിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത് കൂടാതെ ധാർമ്മികതയും നിയമവും തമ്മിലുള്ള വിടവ് നികത്താൻ കാരണങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു നിയമം വളരെ വ്യക്തമാണ് കൂടാതെ ധാർമ്മികതയ്ക്കും ധാർമ്മികത എങ്ങനെ നടപ്പിലാക്കാം എന്നതിനും ഇടയിലുള്ള ഒരു പാലമായി എത്തിക്സ് പ്രവർത്തിക്കുന്നു ഇപ്പോൾ ധാർമ്മികതയിൽ നിന്ന് നാം വ്യക്തമാക്കുന്ന ഈ നിയമങ്ങളെ നൈതിക സിദ്ധാന്തങ്ങൾ എന്ന് വിളിക്കുന്നു എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് എങ്ങനെ തീരുമാനിക്കാം ഞങ്ങൾ പിന്തുടരുന്ന ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ പറയുന്ന ന്യായം എന്താണ് ഇതെല്ലാം ധാർമ്മിക സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ അവയെക്കുറിച്ച് സംസാരിക്കും ധാർമ്മികത നൈതികത നൈതിക സിദ്ധാന്തം എന്നിവ തമ്മിലുള്ള ബന്ധം നൈതികത ധാർമ്മികതയെ യുക്തിസഹമാക്കുന്നു എന്തെങ്കിലും ശരിയോ തെറ്റോ ആകുന്നതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ ധാർമ്മികത നമ്മെ സഹായിക്കുന്നു എന്തുകൊണ്ടാണ് സമൂഹം ഒരു കാര്യത്തെ ശരിയോ തെറ്റോ ആയി കണക്കാക്കുന്നത് അതിനാൽ നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ധാർമ്മിക സിദ്ധാന്തം നിർമ്മിക്കാൻ നൈതികത ധാർമ്മികതയെ യുക്തിസഹമാക്കുന്നു കൂടാതെ അത് നിയമങ്ങളിലേക്കും ചട്ടങ്ങളിലേക്കും വിവർത്തനം ചെയ്യുന്നു കൂടാതെ ഇവയ്ക്ക് ധാർമ്മിക പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള പരിഹാരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ബിസിനസ്സ് നൈതികത പ്രധാനമാവുന്നത് വീണ്ടും വളരെ പൊതുവായ വിഷയമാണ് പക്ഷേ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നു ബിസിനസ്സ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശക്തിയും നിയന്ത്രണവും ചെലുത്തുന്നു ആളുകൾക്ക് പണമുണ്ട് ജനങ്ങൾക്ക് അധികാരമുണ്ട് ആളുകൾക്ക് ബന്ധങ്ങളുണ്ട് അതിനാൽ നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം സാധാരണയായി അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ പ്രവണത കാണിക്കുന്നു ഞാൻ സാധാരണയായി എന്ന് പറയില്ല എന്നാൽ എന്താണ് ശരിയും തെറ്റും എന്ന് കണക്കാക്കുന്നത് അത് എങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് നിർണ്ണയിക്കാൻ പ്രവണത കാണിക്കുന്നു തൊഴിൽ നികുതി മുതലായവ നൽകികൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ സമൂഹങ്ങൾക്ക് ഒരു പ്രധാന സംഭാവന നൽകാൻ ബിസിനസ്സിന് കഴിവുണ്ട് അതിനാൽ ബിസിനസ്സ് പ്രധാനമാണ് കൂടാതെ ബിസിനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ബിസിനസ്സ് നന്നായി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എത്ര പേരെയാണ് ബാധിക്കുന്നത് കൂടാതെ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ബിസിനസ്സ് നൈതികത ബിസിനസ്സിലെ തെറ്റായ പ്രവർത്തനങ്ങൾ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും പരിസ്ഥിതിക്കും വലിയ ദോഷം വരുത്താനുള്ള കഴിവുണ്ട് ഹ്യൂമൻ റിസോഴ്സിനെക്കുറിച്ചുള്ള ക്ലാസിൽ ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് നിങ്ങൾ പറയും ഞങ്ങൾ ഇതെല്ലാം പഠിക്കുകയാണ് കാരണം സാധ്യതയുള്ള എച്ച്ആർ മാനേജർമാർ എന്ന നിലയിൽ ഞങ്ങളുടെ കമ്പനി എന്താണ് ചെയ്യുന്നതെന്നും അത് ആളുകളെ എങ്ങനെ ബാധിക്കുമെന്നും കമ്പനിയുമായി പങ്കാളികളായി ബന്ധപ്പെടാൻ പോകുന്നവരെക്കുറിച്ചും അറിയുകയും മനസ്സിലാക്കുകയും വേണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയേണ്ടത് എങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്തും നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്ന പരിസ്ഥിതിയെ സ്വാധീനിക്കാൻ പോകുന്നു എന്നതാണ് ആളുകൾ നിയമം അനുസരിക്കാത്തപ്പോൾ ആളുകൾ ധാർമ്മികതയില്ലാത്തപ്പോൾ അവർ സമൂഹത്തെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ ധാരാളം ആളുകൾക്ക് അവർ ഭാഗമായ പരിസ്ഥിതിയിൽ വളരെയധികം നാശമുണ്ടാക്കാൻ കഴിയും കൂടാതെ അത് മനുഷ്യരാശിക്ക് ചിലപ്പോൾ വലിയതോതിൽ ഹാനികരമായേക്കാം വിവിധ തല്പരകക്ഷികൾ ധാർമ്മികമായിരിക്കാൻ ബിസിനസ്സിൽ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണവും വെല്ലുവിളി നിറഞ്ഞതുമായി മാറുകയാണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ത് ചെയ്യാൻ കഴിയും എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ആയ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യമുണ്ട് അതിനാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ എന്ന നിലയിൽ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ നിന്ന് സമൂഹം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ് ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാണ് സംഘടനകൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയില്ല എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്ന് അവർക്കറിയാം എച്ച്ആർ മാനേജർമാരെന്ന നിലയിൽ പരിസ്ഥിതിയും ഞങ്ങളുടെ സ്ഥാപനത്തിലെ തീരുമാനമെടുക്കുന്നവരും തമ്മിലുള്ള വിടവ് നികത്തേണ്ടതുണ്ട് കൂടാതെ ഈ ചുറ്റുപാടിൽ നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അവരെ അറിയിക്കുക നമ്മൾ ഇവിടെയിരിക്കുന്ന ആളുകളുടെ കംഫർട്ട് സോണുകളെ വ്രണപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ചില ബിസിനസുകാർക്ക് ഔപചാരികമായ ബിസിനസ്സ് നൈതികതയോ പരിശീലനമോ ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഈ ക്ലാസിൽ നമ്മൾ ഇവിടെ എത്തിക്സ് പഠിക്കുന്നത് വളരെ പ്രധാനമാണ് കൂടാതെ ബിസിനസ്സുകളിൽ ധാർമ്മിക ലംഘനങ്ങൾ തുടരുന്നു ചിലപ്പോൾ സ്വമേധയാ അല്ലെങ്കിൽ മനഃപൂർവ്വം ആവാം ചിലപ്പോൾ അറിയാതെയാവാം അതിനാൽ ഇത് വളരെ വളരെ പ്രധാനമാണ് വ്യത്യസ്ത വലുപ്പത്തിലുള്ള കമ്പനികൾ ബിസിനസ്സ് നൈതികത വീക്ഷിക്കുന്ന വിവിധ വഴികൾ ഈ പട്ടിക വളരെ രസകരമാണ് അതിനാൽ ഞാൻ അത് നിങ്ങളുമായി പങ്കിടാമെന്ന് കരുതി ദയവായി നിങ്ങളുടെ സ്ക്രീനുകൾ ഒരു മിനിറ്റ് താൽക്കാലികമായി നിർത്തുക നോക്കൂ ഈ പട്ടികയിൽ എന്താണുള്ളത് ഓർഗനൈസേഷനുകളെ അവയുടെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി ഞങ്ങൾ വിഭജിച്ചു കൂടാതെ എഴുത്തുകാരായ ക്രെയിനും മാറ്റനും ഓർഗനൈസേഷനുകളെ അവയുടെ വലുപ്പത്തെയും അവർ ചെയ്യുന്നതിനെയും അടിസ്ഥാനമാക്കി വിഭജിച്ചു അതിനാൽ വൻകിട കോർപ്പറേഷനുകൾ ചെറുകിട ബിസിനസുകൾ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബിസിനസ്സ് നൈതികതയുമായി ഇടപെടുന്നതിൽ വലിയ കോർപ്പറേഷനുകളുടെ പ്രധാന മുൻഗണനകൾ സാമ്പത്തിക സമഗ്രതയാണ് സാമ്പത്തിക കാര്യങ്ങൾ വളരെ വളരെ പ്രധാനമാണ് ജീവനക്കാരുടെയും ഉപഭോക്താവിന്റെയും പ്രശ്നങ്ങൾ അതിനാൽ അവർ ഈ കാര്യങ്ങൾ നോക്കുന്നു മറുവശത്ത് ചെറുകിട ബിസിനസ്സുകൾ ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ മാത്രമാണ് നോക്കുന്നത് അത് അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അവർക്ക് വളരെയധികം സങ്കീർണതകൾ ഇല്ലെന്ന് സ്ഥിരപ്പെടുത്തുന്നതിനാണ് അതേ സമയം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ അവർ നിലനിൽക്കുന്ന ദൌത്യം നിറവേറ്റുന്നതിന് അവരുടെ ക്ലയന്റുകളോട് ഉത്തരവാദിത്തമുണ്ട് അതിനാൽ അവർ അതും നോക്കുന്നുണ്ട് അത് അവർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ധാർമ്മിക പ്രശ്നമാണ് തന്ത്രങ്ങളുടെ സമഗ്രത അവർ സമൂഹത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് അതിനാൽ അവർ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ശരിയാണ് കൂടാതെ അവർ ഉത്തരവാദിത്തമുള്ളവരാണ് അവർ നിയമാനുസൃതമായിരിക്കണം എന്തുകൊണ്ടെന്നാൽ അവർ ചെയ്യുന്ന ജോലിയിൽ ധാരാളം ആളുകൾ അവരെ ആശ്രയിക്കുന്നു കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിയമം പാലിക്കണം അഴിമതിക്കെതിരെ അവർ ശ്രദ്ധിക്കണം താൽപ്പര്യ വൈരുദ്ധ്യങ്ങൾ നടപടിക്രമ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം കൂടാതെ മറ്റ് ഓർഗനൈസേഷനുകളെ അപേക്ഷിച്ച് അവർ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റിയോടും അവരുടെ ക്ലയന്റുകളോടും മറ്റ് പങ്കാളികളോടും ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം ഇപ്പോൾ ധാർമ്മികത കൈകാര്യം ചെയ്യുന്നതിനുള്ള സമീപനം വൻകിട കോർപ്പറേഷനുകളിൽ അവർക്ക് ഔപചാരികമായ പബ്ലിക് റിലേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നൈതികത കൈകാര്യം ചെയ്യുന്നതിനോ ധാർമ്മികത കൈകാര്യം ചെയ്യുന്നതിനോ ഉള്ള ഒരു സിസ്റ്റം അധിഷ്ഠിത നടപടിക്രമമുണ്ട് കൂടാതെ ചെറുകിട ബിസിനസ്സുകളിൽ അത് വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങൾ ആരെയെങ്കിലും വിളിച്ച് അവരോട് പറയുക ദയവായി ഇത് ചെയ്യരുത് നിങ്ങൾ ശരിയായ കാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക അതിനാൽ ഇത് കൂടുതൽ അനൌപചാരികവും നൈതികത കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു തരത്തിലുള്ള നടപടിക്രമവുമാണ് സിവിൽ സൊസൈറ്റി സംഘടനകൾ വീണ്ടും ഓർഗനൈസേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ വികാരങ്ങളോടും മൂല്യങ്ങളിലേക്കും മൂല്യ വ്യവസ്ഥകളിലേക്കും ഞങ്ങൾ അപേക്ഷിക്കുന്നു കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടപടിക്രമം വളരെ ഔപചാരികവും ബ്യൂറോക്രാറ്റിക്കും ആണ് വലിയ ഓർഗനൈസേഷനുകളിൽ ധാർമ്മിക നിലവാരം നിലനിർത്തുന്നതിന് ഉത്തരവാദിത്തമുള്ള ആളുകൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ആളുകൾ ഓഹരി ഉടമകളാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ആളുകൾ ചെറുകിട ബിസിനസ്സുകളിലെ ഞങ്ങളുടെ പങ്കാളികളാണ് ധാർമ്മിക മാനദണ്ഡങ്ങൾ നിലനിർത്തുന്നതിന് ഉടമകൾ ഉത്തരവാദിത്തമുള്ളവരാണ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകളിൽ അത് സംഭാവന കൊടുക്കുന്നവരും ക്ലയന്റുകളുമാണ് കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉത്തരവാദിത്തം പൊതുസമൂഹത്തിനാണ് ഉയർന്ന തലത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ധാർമികത നിലനിർത്താൻ ബാധ്യസ്ഥരാണ് വലിയ ഓർഗനൈസേഷനുകൾ അല്ലെങ്കിൽ വലിയ കോർപ്പറേഷനുകൾ നേരിടുന്ന പ്രധാന നിയന്ത്രണങ്ങൾ ആദ്യത്തേത് ഷെയർഹോൾഡർ ഓറിയന്റേഷനാണ് ഓഹരി ഉടമകൾക്ക് എന്താണ് വേണ്ടത് അവർക്ക് പണം വേണോ അന്തിമ ഉൽപ്പന്നം വലുതായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാം ശരിയായി ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ കൂടാതെ എങ്ങനെ അല്ലെങ്കിൽ എന്ത് ബിസിനസ്സ് എന്നതിനെക്കുറിച്ച് പിന്നീട് ഞങ്ങൾ ഇതിലേക്ക് വരും കൂടാതെ അവയുടെ വലിപ്പം കാരണം നൈതിക മാനദണ്ഡങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ സങ്കീർണ്ണത വളരെ ഉയർന്നതായിത്തീരുന്നു ചെറുകിട ബിസിനസ്സുകൾ അവർക്ക് വിഭവങ്ങളുടെ അഭാവം ഉണ്ടാകാം കൂടാതെ അവർക്ക് ബിസിനസ്സ് നൈതികതയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞേക്കില്ല അത് വിഭവങ്ങളുടെ അഭാവം കാരണമാണ് അവർ സ്ഥിരത കൈവരിക്കുന്ന തിരക്കിലായത് കൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും അറിയില്ലായിരിക്കാം സിവിൽ സൊസൈറ്റി സംഘടനകൾ വീണ്ടും പരിശീലനം ഒരു വലിയ പ്രശ്നമാണ് കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നമ്മൾ വളരെ സംതൃപ്തരാണ് ഞാൻ ഞങ്ങൾ എന്ന് പറയേണ്ടതില്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളിൽ പലർക്കും അറിയാം ഞാൻ ഞങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരേയും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് രഹസ്യസ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിൽ സുതാര്യത കുറവായിരിക്കാം അതിനാൽ ഇത് വളരെ പ്രവചനാതീതമായ ഗെയിമാണ് അത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് കൂടാതെ ഒരാൾ ശ്രമിച്ചാലും ചിലപ്പോൾ അശ്രദ്ധമായി തെറ്റുകൾ സംഭവിക്കുന്നു പക്ഷേ നമ്മൾ കഴിയുന്നത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് ആഗോളവൽക്കരണത്തിന്റെ നൈതിക പ്രത്യാഘാതങ്ങൾ വിവിധ പങ്കാളി ഗ്രൂപ്പുകളിൽ ധാർമ്മികതയെ സംബന്ധിച്ചിടത്തോളം വിവിധ പങ്കാളികൾ ഓഹരിയുടമകളാണ് അതിനാൽ അവർ വളരെ ബോധവാന്മാരാകുന്നു കൂടാതെ അവർ അപകടസാധ്യതകൾക്ക് ബാധ്യസ്ഥരായിരിക്കാം അവർക്ക് എന്ത് ജോലിയാണ് നൽകുന്നത് അവർ ആ ജോലികൾ എങ്ങനെ കൈകാര്യം ചെയ്തു മുതലായവ ഉപഭോക്താക്കൾ അവർ ഉപയോഗിക്കുന്ന ചരക്കുകൾ അവരുടെ സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു ഈ സാധനങ്ങൾ എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് തുടങ്ങിയവ അതിനാൽ ഞാൻ അർത്ഥമാക്കുന്നത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെന്ന് മാത്രം Ikea പരവതാനികളുടെ വളരെ അറിയപ്പെടുന്ന ഒരു കേസിന്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് തരാം Ikea ഒരു സ്വീഡിഷ് സംഘടനയാണ് കൂടാതെ അവർക്ക് ലോകമെമ്പാടും ബിസിനസുകളുണ്ട് കൂടാതെ ഒരു ഘട്ടത്തിൽ ആ പരവതാനികൾ നിർമ്മിക്കാൻ കുട്ടികളെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിൽ നിന്ന് പരവതാനികൾ സോഴ്സ് ചെയ്യുന്നതായി അവർ ആരോപിക്കപ്പെട്ടു അതിനാൽ ഇവരിൽ നിന്ന് പരവതാനി വാങ്ങി ബാലവേല പ്രോത്സാഹിപ്പിക്കുന്നതായി അവർ ആരോപിച്ചു ഇപ്പോൾ Ikea അത്രയും വലിയ സംഘടനയാണ് അവർ ഞെട്ടിപ്പോയി അധാർമ്മികമായ ഒന്നും ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അവർ പോയി അന്വേഷിച്ചു കൂടാതെ അവർ ഒടുവിൽ RUGMARK എന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു RUGMARK എന്നത് ബാലവേല ഇല്ല എന്ന ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വായിക്കാം RUGMARK RU G M A R K കൂടാതെ RUGMARK ഏതെങ്കിലും പരവതാനിയിൽ ഒരു RUGMARK സ്റ്റാമ്പ് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ പരവതാനി കുട്ടികളെ ജോലിക്കെടുക്കാത്ത ഒരു വർക്ക്ഷോപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പക്ഷേ ഇത് വളരെ വലിയ ഒരു സ്ഥാപനമാണ് ആളുകൾക്ക് ഈ മനോഹരമായ പരവതാനികൾ വേണം അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അവർക്കറിയില്ല വിവിധ കാരണങ്ങളാൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എവിടെയോ ഇരിക്കുന്ന ഒരാൾ അത് ഉറവിടമാക്കുന്നു കൂടാതെ പലപ്പോഴും നിങ്ങൾ ആരാണെന്നും പിന്നിൽ എവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും ഞങ്ങൾക്കറിയില്ല കൂടാതെ ഐകിയയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് തീർച്ചയായും അവർ അറിഞ്ഞയുടനെ അവർ അതിനെക്കുറിച്ച് ജാഗരൂകരായിരുന്നു ഇത് സംഭവിക്കാതിരിക്കാൻ അവർ നടപടികൾ സ്വീകരിച്ചു എന്തായാലും ഇത് ആഗോളവൽക്കരണത്തിന്റെ ഒരു ഉദാഹരണമാണ് ഉപഭോക്തൃ ഉൽപന്നങ്ങൾ നമ്മെ എങ്ങനെ അധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് ഇരയാക്കും വിതരണക്കാരും എതിരാളികളും വികസ്വര രാജ്യങ്ങളിലെ വിതരണക്കാർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വഴി MNC യുടെ നിയന്ത്രണം നേരിടുന്നു വീണ്ടും ഞങ്ങൾ വിവിധ ആളുകളുമായി മത്സരിക്കുന്നു അതിനാൽ എപ്പോഴും മത്സരമുണ്ട് കൂടാതെ അത് പ്രകടനം നടത്താൻ ഞങ്ങളുടെ മേൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തി കൂടാതെ അത് അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്ക് ധാരാളം വാതിലുകൾ തുറക്കും സിവിൽ സൊസൈറ്റി വീണ്ടും എൻജിഒകൾ മുതലായവ ജനങ്ങളുടെ അവബോധം ഉയരുന്നു അവിടെ ആളുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് ജനങ്ങൾ ശരിയായത് ചെയ്യുന്നുണ്ടെന്ന് അത് ഉറപ്പാക്കുന്നു കൂടാതെ കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ അത് ഞങ്ങളുടെ മേൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു ഗവൺമെന്റും നിയന്ത്രണ നിയമങ്ങളും ഓരോ ദിവസവും ഭേദഗതി ചെയ്യുന്നു കൂടാതെ ഞങ്ങൾ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ തന്നെ തുടരുകയും ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ആഗോളവൽക്കരണം വിവിധ തല്പരകക്ഷികളോട് ചെയ്യുന്നത് ഇതാണ് കോർപ്പറേഷനുകളും ബിസിനസ്സ് നൈതികതയും നിയമപ്രകാരം കോർപ്പറേഷനുകളെ കൃത്രിമ വ്യക്തികളായി കണക്കാക്കുന്നു അതിനാൽ കോർപ്പറേഷൻ ചെയ്യുന്നതെന്തും നിയമപരമായ ചോദ്യം ചെയ്യലിന് വിധേയമാണ് കൂടാതെ ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം അതുകൊണ്ടാണ് ബിസിനസ്സ് നൈതികത പഠിക്കേണ്ടത് വളരെ പ്രധാനമാകുന്നത് ഒപ്പം ജാഗ്രത പുലർത്തുകയും നമ്മുടെ പരിസ്ഥിതിയെ കുറിച്ച് ബോധവാനായിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ പരിസ്ഥിതിയെ ദ്രോഹിക്കാൻ നമുക്ക് കഴിയുമെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വിവിധ കാര്യങ്ങൾ വീണ്ടും ചെറിയ ആശയങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ ബോധവാന്മാരാക്കും ഇത് ബിസിനസ്സ് നൈതികതയെക്കുറിച്ചുള്ള ക്ലാസല്ല മാനവവിഭവശേഷിയെക്കുറിച്ചുള്ള ക്ലാസാണിത് പക്ഷേ അടുത്ത പ്രഭാഷണത്തിൽ ഞങ്ങൾ അവയെ അഭിസംബോധന ചെയ്യുമ്പോൾ ധാർമ്മിക പ്രശ്നങ്ങൾ മനസിലാക്കാൻ ഈ നിബന്ധനകൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു നൈതിക സമ്പൂർണ്ണത സാർവത്രിക തത്ത്വത്തെ കൈകാര്യം ചെയ്യുന്നു ശരിയോ തെറ്റോ എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ നമ്മിൽ ചിലർ വളരെ കർക്കശക്കാരാണ് ഞങ്ങളിൽ ചിലർ കേവലവാദികളാണ് ഇപ്പോൾ ഒരു സമ്പൂർണ്ണവാദി ആയിരിക്കുക അതിനർത്ഥം എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചുള്ള വളരെ കർശനമായ ധാരണകൾ നമുക്കുണ്ട് കൂടാതെ അത്തരം ആളുകൾ നിയമങ്ങളും ചട്ടങ്ങളും നന്നായി നടപ്പിലാക്കുന്നവരാണ് ഉയർന്ന അപകടസാധ്യതയുള്ള ഏതൊരു പ്രവർത്തനവും നൈതിക സമ്പൂർണ്ണവാദികളായ ആളുകളെ ഏൽപ്പിക്കാവുന്നതാണ് കാരണം ഈ ആളുകൾ ഒരു കാര്യം പോലും വഴിതെറ്റാൻ അനുവദിക്കില്ല അതിനാൽ ഈ ആളുകൾ വളരെ നല്ല ഓഡിറ്റർമാരെ ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് എന്താണ് ശരിയും തെറ്റുമെന്ന് പരിഗണിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് നേരെമറിച്ച് നൈതിക ആപേക്ഷികവാദം കുറച്ചുകൂടി തുറന്നതാണ് കുറച്ച് കൂടുതൽ വഴക്കമുള്ളതാണ് കൂടാതെ നൈതിക ആപേക്ഷിക ചിന്തകൾ അനുസരിച്ച് കാര്യങ്ങൾ ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കൂടാതെ ധാർമ്മികത സന്ദർഭത്തെ ആശ്രയിച്ചുള്ളതും ആത്മനിഷ്ഠവുമാണ് കൂടാതെ ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു അതിനാൽ നിങ്ങൾ കാര്യങ്ങൾ മറ്റൊരാളുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നതിനോട് നിങ്ങൾ സമ്മതിച്ചേക്കാം അതിനാൽ ഒരു ഏകീകൃത മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി എല്ലാം വിലയിരുത്തരുത് പിന്നെ അതാണ് ആപേക്ഷികവാദം നിങ്ങൾ കാര്യങ്ങളെ സന്ദർഭോചിതമായി നോക്കുന്നു കൂടാതെ ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ യുക്തിക്കായി നോക്കുക കൂടാതെ ബഹുസ്വരത നാമെല്ലാവരും സഹവർത്തിത്വമാണ് അതിനാൽ ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക കൂടാതെ ബഹുസ്വരത ശരിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെയാണ് ഞാൻ ഉള്ളിടത്തുതന്നെയാണ് ഞാൻ നിങ്ങളോട് സമ്മതിക്കേണ്ടതില്ല നിങ്ങൾ എന്നെ സമ്മതിക്കേണ്ടതില്ല നമ്മൾ എല്ലാവരും സഹജീവികളാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ കാരണം എനിക്കറിയേണ്ടതില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രത്യേക തീരുമാനം എടുത്തതെന്ന് എനിക്കറിയേണ്ടതില്ല ഞാൻ അതിനോട് യോജിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ഞങ്ങൾ സഹവർത്തിത്വത്തിലാണ് ഒപ്പം നിങ്ങൾ എന്നെ ഞാനാകാൻ അനുവദിച്ചു കൂടാതെ ഞാൻ നിങ്ങളെ നിങ്ങളാകാൻ അനുവദിക്കും അതിനാൽ അതാണ് ബഹുസ്വരത ബിസിനസ്സ് നൈതികതയിലെ ചില സിദ്ധാന്തങ്ങൾ നമുക്കുണ്ട് അഹംഭാവം നമുക്കുണ്ട് പ്രയോജനവാദം കൂടാതെ നമുക്ക് അവകാശങ്ങളും നീതിയും ഉണ്ട് ഇപ്പോൾ മൂന്ന് സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സ് തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണമെന്ന് നിർണ്ണയിക്കാൻ കഴിയുന്ന മൂന്ന് സിദ്ധാന്തങ്ങൾ അഹംഭാവം അവിടെ ഒരു വ്യക്തി തന്റെ വ്യക്തിഗത ആഗ്രഹങ്ങളും താൽപ്പര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ വെക്കുന്നു മറ്റൊരാൾക്ക് ലഭിക്കുന്ന നേട്ടത്തേക്കാൾ എനിക്ക് ലഭിക്കുന്ന നേട്ടമാണ് പ്രധാനം ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് ലഭിച്ചാൽ കുഴപ്പമില്ല എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് തെറ്റാണ് കൂടാതെ ഞങ്ങൾ ആഗ്രഹങ്ങളോ സ്വാർത്ഥതാൽപ്പര്യങ്ങളോ പരമാവധിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതാണ് അഹംഭാവം കൂടാതെ അതൊരു അനന്തരഫല നൈതികതയാണ് അന്തിമഫലം എനിക്ക് കൂടുതൽ പ്രധാനമാണ് എങ്ങനെ കിട്ടുന്നു എന്നതിലുപരി അവസാനം എനിക്ക് എന്ത് കിട്ടുന്നു എന്നത് എനിക്ക് വളരെ പ്രധാനമാണ് എനിക്ക് വേണ്ടത് കിട്ടിയാൽ എല്ലാം ശരിയാകും നന്നായി അവസാനിക്കുന്നതെല്ലാം ശരിയാണ് അതാണ് അനന്തരഫല നൈതികത ഇതൊരു പ്ലസ് മൈനസ് ഗെയിമാണ് അതുകൊണ്ട് ലാഭം നഷ്ടത്തേക്കാൾ കൂടുതലാണെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം ശരിയാണ് യൂട്ടിലിറ്റേറിയനിസം വീണ്ടും ഞങ്ങൾ പറയുന്നിടത്ത് ഒരു പരിണതഫലമായ ധാർമ്മികത അല്ലെങ്കിൽ അനന്തരഫലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള മാർഗമാണ് അവസാനം വന്നതെന്തും നമുക്ക് മികച്ച കാര്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന്റെ പ്രയോജനം കൂടുതൽ ആളുകൾക്ക് നല്ലതാണെങ്കിൽ അത് നല്ലതാണ് അതിനാൽ വ്യക്തിഗത ക്ഷേമത്തേക്കാൾ കൂട്ടായ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നു കൂട്ടായ കാര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അവർ കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിനാൽ യൂട്ടിലിറ്റേറിയനിസം അതാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ അതൊരു അനന്തരഫല ധാർമ്മികതയാണ് വീണ്ടും അവസാനം മിക്ക ആളുകൾക്കും എല്ലാം ശരിയായിരിക്കണം അവകാശങ്ങളും നീതിയും നിങ്ങളുടെ അതിർത്തി കടക്കാതിരിക്കുക മറ്റൊരു വ്യക്തിയുടെ മേഖലയെ ലംഘിക്കാതിരിക്കുക എന്നിവയാണ് അത് മനുഷ്യരോടുള്ള ആദരവാണ് കൈകാര്യം ചെയ്യുന്നത് കൂടാതെ ഇത് ഒരു അനന്തരഫലമില്ലാത്ത നൈതികതയാണ് നിങ്ങൾ ചെയ്യുന്നതെന്തും നിരവധി ആളുകൾക്ക് പ്രയോജനകരമാണോ എന്നത് പ്രശ്നമല്ല ഇത് ആളുകളെ അസൌകര്യത്തിലാക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ ചെയ്താലും അത് ചിലർക്ക് അസൌകര്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല ഓരോരുത്തർക്കും അവരവരുടെ ഇടം കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വന്തം വഴി സ്വന്തം ചിന്ത എന്നിവയ്ക്ക് അവകാശമുണ്ട് കൂടാതെ നമ്മൾ അത് ലംഘിച്ചാൽ അന്തിമഫലം അവർക്ക് പ്രയോജനകരമാണെങ്കിലും അത് ശരിയല്ല അതുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ചില വഴികൾ ഇവയാണ് ബാലവേലയുടെ കാര്യത്തിൽ പ്രയോജനകരമായ വിശകലനത്തിന്റെ ഒരു ഉദാഹരണം കാണിക്കാം ആളുകൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരുന്നു ആക്ഷൻ ഒന്ന് ഡീൽ ചെയ്യുക എന്നതാണ് അതിനാൽ പറയൂ കുട്ടികൾ പരവതാനി നിർമ്മിക്കാൻ ജോലി ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് പരവതാനികൾ സ്രോതസ്സുചെയ്യുന്ന ഒരു ഡീലറുമായി ഒരു ഇടപാട് നടത്തുന്നതിന് ഇടയിൽ ഒരു വ്യക്തി തീരുമാനിക്കേണ്ട ബാലവേലയുടെ ഒരു കേസ് നിങ്ങൾക്കുണ്ട് ഇപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾ കരാർ ചെയ്യുക നിങ്ങൾക്ക് ആ പരവതാനികൾ ഡീലറിൽ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ ആ ഡീലറിൽ നിന്ന് നിങ്ങൾക്ക് പരവതാനികൾ ലഭിക്കുന്നില്ല അതിനാൽ ഇത് കരാർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇടപാട് നടത്തുന്നില്ല കരാർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇടപാട് നടത്താതിരിക്കുക എന്നിവയാണ് സന്തോഷം ഞങ്ങൾ ഉപയോഗപ്രദമായ വിശകലനം കൈകാര്യം ചെയ്യുന്നു നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് പുസ്തകത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നല്ല പ്രശ്നമാണിത് ഉല്പന്നത്തിന് ലഭിക്കുന്ന ആനന്ദം ഇവിടെയുള്ള ഓഹരി ഉടമകൾ ഉൽപ്പന്ന മാനേജർമാരാണ് എന്നോട് ക്ഷമിക്കൂ ഇവിടെ നിന്ന് തായ് എന്ന വാക്ക് ഞാൻ നീക്കം ചെയ്യും ഞാൻ ഈ വാക്ക് ഇവിടെ നിന്ന് നീക്കം ചെയ്യും അത് ഡീലർ മാത്രമായിരിക്കണം അതിനാൽ ഏതൊരു ഡീലറും ഒരു തായ് ഡീലർ ആകാം ഒരു ഇന്ത്യൻ ഡീലർ ആയിരിക്കാം അതിൽ കാര്യമില്ല ഇവിടെ എന്താണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഇവിടെ പ്രധാനം ഞങ്ങൾക്ക് ഒരു നിശ്ചിത എണ്ണം പരവതാനികൾ വാങ്ങേണ്ട ഉൽപ്പന്ന മാനേജർ ഉണ്ടായിരിക്കാം ഒപ്പം ദയവായി ഇപ്പോൾ സ്ലൈഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഡീൽ നേടണമെന്ന് ചിന്തിക്കുന്ന ഒരു ഡീലർ നമുക്കുണ്ട് ഈ പരവതാനികളുടെ നേരിട്ടുള്ള സമ്പർക്കം അല്ലെങ്കിൽ ഉൽപ്പന്ന മാനേജർ കുടുംബം ഉറവിടം എന്നിവയ്ക്കിടയിലുള്ള ബന്ധം മാതാപിതാക്കൾ ആണ് കൂടാതെ ഞങ്ങൾക്ക് കുട്ടികളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങൾക്ക് കുട്ടികൾ തന്നെയുണ്ട് കൂടാതെ വീട്ടിൽ ഒരു മുത്തശ്ശിയായിരിക്കാം അതിനാൽ നമുക്ക് സാഹചര്യം പരിഗണിക്കാം ഇപ്പോൾ ഉൽപ്പന്ന മാനേജർ പറയുന്നു ഞാൻ കരാർ ചെയ്താൽ ഞാൻ ഇടപാട് നടത്തിയാൽ ഈ പരവതാനികൾ വാങ്ങിയാൽ എനിക്ക് ബിസിനസിന് നല്ല ഡീൽ ലഭിക്കും കൂടാതെ എനിക്ക് ബിസിനസ്സിനായി ഒരു നല്ല ഡീൽ ലഭിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു വ്യക്തിഗത ബോണസ് ലഭിക്കും ഞാൻ അഭിമുഖീകരിക്കുന്ന വേദന മോശം മനസ്സാക്ഷിയാകും എന്റെ ദൈവമേ അവർ ചെറിയ കുട്ടികളെ ജോലിക്കെടുക്കുന്നു എനിക്ക് അസ്വസ്ഥത അനുഭവപ്പെടും മനുഷ്യാവകാശ സംഘടനകൾ ബാലവേലയ്ക്കെതിരെ കമ്പനിക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രശസ്തിക്ക് അപകടസാധ്യതയുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം ഡീലർ പറയുന്നു ശരി എനിക്ക് പണം ലഭിക്കുന്നു അതിനാൽ ഇത് ഒരു നല്ല ഇടപാടാണ് അതിനാൽ എല്ലാം സന്തോഷകരമാണ് വേദനയൊന്നും ഉൾപ്പെട്ടിട്ടില്ല കുടുംബത്തിന്റെ വരുമാനം ഉറപ്പാക്കാൻ ഇടപാട് നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മാതാപിതാക്കൾ പറയുന്നു വീണ്ടും തങ്ങളുടെ കുട്ടികൾ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് അവർക്കും വിഷമമുണ്ട് കാരണം കുട്ടികൾക്കുള്ള സാധ്യതകൾ പരിമിതമാണ് ആവശ്യമുണ്ടെന്ന് കുട്ടികൾക്ക് നന്നായി തോന്നുന്നു മുതിർന്നവരായതിനാൽ അവർക്ക് മാതാപിതാക്കളുടെ അംഗീകാരം ലഭിക്കുന്നു ആളുകൾ പറയുന്നു ഓ നിങ്ങൾ ഒരു മികച്ച ജോലി ചെയ്യുന്നു നിങ്ങൾ വളരെ നല്ല ജോലിയാണ് ചെയ്യുന്നത് അതിനാൽ അവർക്ക് മികച്ചതായി തോന്നുന്നു പക്ഷേ അത് ശാരീരികമായ കഠിനാധ്വാനമാണ് കൂടാതെ അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന് അവസരമില്ല പിന്നെ അവർ വളരുമ്പോൾ പിന്നീട് അത് മനസ്സിലാക്കുന്നു മുത്തശ്ശി വളരെ സന്തോഷത്തിലാണ് ഇടപാട് നടന്നാൽ അവളുടെ ആവശ്യങ്ങൾ വീട്ടുകാർക്ക് നോക്കാനാകും അതിനാൽ എല്ലാവർക്കും ഓക്കേ ആണ് കൂടാതെ ഇതൊരു നല്ല മുത്തശ്ശിയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്തതിൽ അവർക്ക് വിഷമം തോന്നും ഇപ്പോൾ കരാർ നടന്നില്ലെങ്കിൽ ഡീലർ അല്ലെങ്കിൽ ഉൽപ്പന്ന മാനേജർ ഈ ഫാക്ടറിയിൽ നിന്ന് പരവതാനികൾ സോഴ്സ് ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിയമപരമായ അപകടസാധ്യത കുറവാണെന്നതാണ് സന്തോഷം നല്ല മനസ്സാക്ഷിയുണ്ട് പക്ഷേ മറുവശത്ത് വേദന ഒരു നല്ല ഇടപാട് നഷ്ടപ്പെടും എന്നതാണ് അവന്റെ ബോണസ് നഷ്ടപ്പെട്ടേക്കാം അയാൾക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തേണ്ടി വന്നേക്കാം ഡീലർക്കായി കരാർ ചെയ്യാത്തത് നല്ല ഇടപാടിന്റെ നഷ്ടമാകും അയാൾക്ക് ഒരു പുതിയ ഉപഭോക്താവിനെ തിരയേണ്ടി വരും അവൻ ആരെയെങ്കിലും കണ്ടെത്തുകയോ കണ്ടെത്താതിരിക്കുകയോ ചെയ്യാം അവന്റെ കുട്ടികൾ ദിവസാവസാനം പട്ടിണി കിടക്കാം രക്ഷിതാക്കൾക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ തേടേണ്ടിവരും അവരുടെ കുട്ടികൾക്ക് പരവതാനി ഉണ്ടാക്കാൻ അറിയാം പക്ഷേ അവർക്ക് പരവതാനികൾ വിൽക്കാൻ കഴിയുന്നില്ല കാരണം ഈ കുട്ടികളുടെ സഹായമില്ലാതെ അവർക്ക് പരവതാനികൾ നിർമ്മിക്കാൻ കഴിയില്ല കൂടാതെ ഒരു കാരണവശാലും പരവതാനി വിറ്റില്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കേണ്ടിവരും കുട്ടികൾ ഇടപാട് നടത്തുന്നില്ല ആനന്ദം കഠിനാധ്വാനമില്ല എന്നതാണ് അവർക്ക് കളിക്കാനും സ്കൂളിൽ പോകാനും മനോഹരമായി വളരാനും സമയമുണ്ട് പക്ഷേ വേദന അവർ അല്ലെങ്കിൽ അവർ കൂടുതൽ വേദനാജനകമായ മറ്റ് ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാകാം അത് അത്ര ഉൽപ്പാദനക്ഷമമായിരിക്കില്ല കൂടാതെ മുത്തശ്ശിക്ക് സാമ്പത്തിക പിന്തുണ നഷ്ടപ്പെടാം അതിനാൽ ഈ ചാർട്ട് നോക്കുമ്പോൾ അത് തോന്നുന്നത്ര അസ്വസ്ഥമാണ് നിങ്ങൾ ഇത് വിശകലനം ചെയ്ത വഴി നോക്കുമ്പോൾ നിങ്ങൾ കാണും ഈ കുടുംബത്തിന് മുന്നോട്ട് പോയി ഇടപാട് നടത്തേണ്ടത് പ്രധാനമാണെന്ന് ഈ പ്ലസ് മൈനസ് കോസ്റ്റ് ബെനിഫിറ്റ് വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപാട് അവസാനിപ്പിക്കും ഇതൊന്നു നോക്കൂ ഈ കാര്യങ്ങൾ താരതമ്യം ചെയ്താൽ മതി അത്രയ്ക്ക് ഇറുകിയ അവസ്ഥയാണ് ധാർമ്മികത നമ്മെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം ഇതാണ് നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ മാനദണ്ഡങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ താൽപ്പര്യങ്ങൾ കണക്കിലെടുക്കാനുള്ള സന്നദ്ധതയാണ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ താൽപ്പര്യങ്ങൾ കണക്കിലെടുക്കാനുള്ള നമ്മുടെ വ്യഗ്രതയാണ് എന്താണ് നല്ലത് എന്താണ് മോശം എന്ന് തീരുമാനിക്കാൻ പ്രാപ്തരാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഇറുകിയ ബന്ധത്തിൽ നമ്മെ എത്തിക്കുന്നതാണ് നിങ്ങൾ ഇത് കാണുമ്പോൾ ഞാൻ ബാലവേലയെ കുറിച്ചും അതും ഇതുമൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ കുടുംബത്തിന്റെ വീക്ഷണകോണിൽ ഇത് നല്ലതാണ് ഒരുപക്ഷേ ഉൾപ്പെട്ട കുടുംബത്തിന്റെ വീക്ഷണകോണിൽ പിശാചിനും ആഴക്കടലിനും ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട് ഡീലർ മറ്റെന്തെങ്കിലും കണ്ടെത്തിയെന്ന് നമുക്ക് പറയാം പക്ഷേ മക്കളെ ജോലിക്ക് വിടാതെ ഈ കുടുംബം കൂടുതൽ ദുരിതം അനുഭവിച്ചേക്കാം അതിനാൽ നമ്മൾ എന്തുചെയ്യും നമ്മൾ എങ്ങനെ തീരുമാനിക്കും അവർക്ക് തൊഴിലിന്റെയോ വരുമാനത്തിന്റെയോ ബദൽ സ്രോതസ്സുകൾ നൽകേണ്ട അവസ്ഥയിലാണോ നാം നമ്മൾ മുന്നോട്ട് പോയാൽ ഇടപാടിനെക്കുറിച്ച് മറന്നേക്കാം പക്ഷേ നമുക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അതിനാൽ രണ്ട് വഴികളിലും ഞങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നു കൂടാതെ ജീവനക്കാരെന്ന നിലയിലും മനുഷ്യരെന്ന നിലയിലും ആളുകൾ എന്ന നിലയിലും കോർപ്പറേഷനുകൾ എന്ന നിലയിലും ഞങ്ങൾ കോസ്റ്റ് ബെനിഫിറ്റ് വിശകലനം നടത്തുന്ന ഒരു മാർഗമാണിത് എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് എന്ന് തീരുമാനിക്കുക ഈ പ്രതിസന്ധി നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിച്ചു അതിനാൽ ബിസിനസ്സ് നൈതികതയുടെ ഈ മുഴുവൻ സ്റ്റിക്കി ആശയവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇത് നിങ്ങളെ ചിന്തിപ്പിക്കും അടുത്ത പ്രഭാഷണത്തിൽ ഈ പ്രഭാഷണത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പ്രത്യേകിച്ചും ഞങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മാനേജർമാരായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പഠിച്ച കാര്യങ്ങളുടെ പ്രയോഗം ഞങ്ങൾ കൈകാര്യം ചെയ്യും ശ്രവിച്ചതിനു നന്ദി